ഈ ആഴ്ച്ച നേരത്തെ നടത്തിയ ലക്ച്റിൽ ഇൻപുട്ട് പ്രിന്റ് എന്നിവ നമ്മൾ നോക്കിയപ്പോൾ പ്രിന്റ് ഔട്ട്പുട്ടിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഒരു പരിധി വരെ എങ്ങിനെയാണ് നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്നത് നമ്മൾ പറഞ്ഞു ഡിഫാൾട്ടായി പ്രിന്റ് ചെയ്യുവാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് പ്രിന്റ് ആർഗ്യുമെന്റായി എടുക്കുന്നു അവയെ സ്പേസുകളുപയോഗിച്ച് വേർതിരിക്കുകയും അവസാനം ഒരു പുതിയ ലൈൻ ഇടുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഐച്ഛികമായ ഒരു ആർഗ്യുമെന്റായ end അവസാനം അത് സ്വീകരിക്കുന്നു മാറ്റുവാനായി നമ്മളെന്താണോ അവസാനം ഇടുന്നത് അതിന് തുല്യമായ ഒരു സ്ട്രിങ്ങാണ് അത് പ്രത്യേകിച്ച് നമ്മളൊരു ശൂന്യമായ സ്ട്രിങ്ങാണ് ഇടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അത് ഒരു പുതിയ വരിയിൽ ആരംഭിക്കുന്നില്ല എന്നാണ് അതായത് അടുത്ത പ്രിന്റ് അതേ വരിയിൽ തുടരും അതുപോലെ സെപ്പറേറ്ററായി സ്പേസിന് പകരം നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതായി മാറ്റുവാൻ സാധിക്കും കൂടാതെ പ്രത്യേകിച്ച് സ്പേസുകളൊന്നും വേണ്ട എങ്കിൽ നമുക്ക് അവ സ്വയം ഉൾപ്പെടുത്താവുന്നതാണ് സെപ്പറേറ്റർ ശൂന്യമായ ഒരു സ്ട്രിങ്ങാണ് എന്ന് പറയാവുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യത വേണമെന്നിരിക്കട്ടെ അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്ട്രിങ്ങ് ലൈബ്രറിയുടെ ഭാഗമായ format എന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് സ്ട്രിങ്ങുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരുകൂട്ടം കാര്യങ്ങൾ കഴിഞ്ഞ ലക്ചറിൽ നമ്മൾ മനസ്സിലാക്കിയ മറ്റു കാര്യങ്ങളായ find replace തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരേ ക്ലാസ്സിനകത്ത് ഉൾപ്പടുന്നതാണ് നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു സ്ട്രിങ്ങിനെയാണ് പ്രിന്റ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിനെ പരിഷ്ക്കരിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മറ്റൊരു സ്ട്രിങ്ങ് നൽകുന്നു അതാണ് നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള സ്ട്രിങ്ങ് യഥാർത്ഥിൽ format എന്ന് പേരുള്ള മെത്തേഡിനെ വിളിക്കുന്നു അതുകൊണ്ട് ഉദാഹരണസഹിതം ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ലളിതമായ മാർഗ്ഗം നമുക്കിവിടെ അടിസ്ഥാനമായ സ്ട്രിങ്ങുകളുണ്ട് first second എന്നിവയാണവ മാത്രമല്ലനമുക്ക് ഈ രണ്ട് രസകരമായ കാര്യങ്ങൾ ബ്രേസുകൾക്കകത്താണ് ബ്രേസുകൾക്കകത്തുള്ള രസകരമായ കാര്യങ്ങൾ ഫംഗ്ഷനിലെ ആർഗ്യുമെന്റുകൾക്ക് തുല്യമായവയാണെന്ന് ചിന്തിക്കാവുന്നതാണ് യഥാർത്ഥ വിലകൾ കൊണ്ട് മാറ്റപ്പെടുന്ന കാര്യങ്ങളാണിവ കൂടാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്ട്രിങ്ങ് നൽകിയിട്ട് format മെത്തേഡ് പ്രയോഗിക്കുമ്പോൾ ഒന്നാമത്തെ ആർഗ്യുമെന്റിനെ പൂജ്യവും രണ്ടാമത്തെ ആർഗ്യുമെന്റിനെ ഒന്നും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ഥാനപ്രകാരമാണ് നമ്മൾ മാറ്റുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഈ സ്ട്രിങ്ങെടുത്ത് പൈത്തണിന് അയക്കുന്നു തൽഫലമായുണ്ടാകുന്ന കാര്യങ്ങൾ first 47 second 11 ഇവയാണ് കാരണം 0 ഒന്നാമത്തെ ആർഗ്യുമെന്റ് കൊണ്ട് മാറ്റപ്പെടുന്നു 1 രണ്ടാമത്തെ ആർഗ്യുമെന്റ് കൊണ്ട് മാറ്റപ്പെടുന്നു പേരുകളെ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നു അതായത് അവ ഒരേ ക്രമത്തിൽ ഉപയോഗിക്കണമെന്നില്ല അതുകൊണ്ട് ഉദാഹരണത്തിൽ കാണിച്ചത് പോലെ നമുക്ക് ആദ്യം ആർഗ്യുമെന്റ് 1 പ്രിന്റ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ആർഗ്യുമെന്റ് 0 അടിസ്ഥാനപരമായി format ന്റെ ഈ പതിപ്പ് ഫോർമാറ്റ് സ്ട്രിങ്ങിൽ കാര്യങ്ങളുടെ സ്ഥാനത്തിനനുസരിച്ച് ഒരു സ്ട്രിങ്ങിലേക്ക് അയക്കുവാൻ അനുവദിക്കുന്നു നമുക്ക് അതേ കാര്യം പേരുപയോഗിച്ച് ചെയ്യാം ഇത് ഒരു ഫംഗ്ഷൻ നിർവ്വചിക്കുന്നതിന് കൃത്യമായി സമമാണ് അവിടെ നമുക്ക് ഫംഗ്ഷൻ ആർഗ്യുമെന്റുകൾ നൽകുവാനും അവ പേരുപയോഗിച്ച് അയക്കാമെന്നും നമ്മൾ പറയുകയുണ്ടായി അതുകൊണ്ട് അതേരീതിയിൽ ഇവിടെ നമുക്ക് ഫോർമാറ്റ് ചെയ്യുവാനുള്ള പേരുകളുടെ ആർഗ്യുമെന്റുകളെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് ഒന്നമാത്തെയും രണ്ടാമത്തെയും ആർഗ്യുമെന്റുകളായ f 47 s 11 എന്ന് നമുക്ക് പറയാവുന്നതാണ് ഇപ്പോൾ നമുക്ക് "One f two s" എന്ന് പറയാവുന്നതാണ് ഇവിടെ സ്ഥാനപ്രകാരമല്ല മറിച്ച് പേര് പ്രകാരമാണ് എന്നതാണ് നേട്ടം ഞാൻ ഈ രണ്ട് സ്ട്രിങ്ങുകളെടുത്ത് അവയെ പരസ്പരം മാറ്റുകയാണെങ്കിൽ അതായത് ഞാൻ f നെ രണ്ടാമത്തെ ആർഗ്യുമെന്റായും s നെ ഒന്നാമത്തെ ആർഗ്യുമെന്റായും എടുക്കുകയാണെങ്കിൽ മാത്രമല്ല അതേ സ്ട്രിങ്ങിലേക്ക് ഞാനവയെ അയച്ചാൽ കൃത്യമായി f ൽ 47 ഉം s ൽ 11 ഉം ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ പേരാണ് ഉപയോഗിക്കുന്നത് മറിച്ച് സ്ഥാനമല്ല അതായത് ഫോർമാറ്റിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ നൽകുന്ന ക്രമം ഒരു പ്രശ്നമല്ല അതുകൊണ്ട് ഇതുവരെ നമ്മൾ ഒരു ഫോർമാറ്റിംഗും ചെയ്തിട്ടില്ല നമ്മളാകെ ചെയ്തത് ഒരു സ്ട്രിങ്ങെടുക്കുകയും എങ്ങിനെയാണ് സ്ട്രിങ്ങിലെ സ്ഥാനസൂചികകൾക്ക് വേണ്ടി വിലകൾ മാറ്റിസ്ഥാപിക്കുക എന്നും പറഞ്ഞു ഇതുവരെ യഥാർത്ഥത്തിലുള്ള ഫോർമാറ്റിംഗ് നടന്നിട്ടില്ല കാരണം അത് എന്തുതന്നെ ആണെങ്കിലും നമ്മൾ കണ്ട നിലവിലുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഇതിനകം തന്നെ ചെയ്യാമായിരുന്നു എങ്ങിനെയാണ് ഈ സ്ഥാനസൂചികകളിൽ ഓരോന്നും പ്രദർശിപ്പിക്കേണ്ടത് എന്ന് അധിക നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള യാഥാർത്ഥ ഫോർമാറ്റിംഗ് വരികയാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് 03d പോലെയുള്ള രസകരമായ കാര്യങ്ങളുണ്ട് നമുക്ക് ഒരു കോളൺ ഉണ്ട് ഈ കോളന് ശേഷം വരുന്നത് ഫോർമാറ്റിംഗുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളാണ് ഇതിന് ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ട് നമ്മൾ ഇവിടെ ഒരു 3 ഉം ഒരു d യും കണ്ടു അവയുടെ അർത്ഥം വ്യത്യസ്തമാണ് അതായത് ഒന്നാമത്തെ കാര്യം 3d അർത്ഥമാക്കുന്നത് എങ്ങിനെയാണ് ഇവിടെ അയക്കപ്പെടുന്ന ഒരു വില പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്നതാണ് d ഒരു കോഡാണ് അത് സൂചിപ്പിക്കുന്നത് ദശംശത്തെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് d സൂചിപ്പിക്കുന്നത് 4 ആണ് അത് ഒരു പൂർണ്ണസംഖ്യയായി കണക്കാക്കണമെന്ന് സൂചിപ്പിക്കുന്നു അതായത് അത് യഥാർത്ഥത്തിൽ ഒരു സാധാരണ പൂർണ്ണസംഖ്യയായി പ്രദർശിപ്പിക്കപ്പെടണം അത് യഥാർത്ഥത്തിൽ 10 അടിസ്ഥാനമായ ഒരു പൂർണ്ണസംഖ്യയാണ് അവസാനമായി മൂന്ന് സ്പേസുകളെടുത്ത് 4 നെ നമ്മൾ ഫോർമാറ്റ് ചെയ്യണമെന്ന് 3 പറയുന്നു അത് ഒരു ഒറ്റ അക്കമാണെങ്കിലും മൂന്ന് സ്പേസുകൾക്ക് തുല്യമായ സ്ഥലം അത് ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് ഞാനിത് മുഴുവൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നാൽ എനിക്ക് വില കിട്ടുന്നു ഇപ്പോൾ ഒരു ശൂന്യമായ സ്പേസ് നിലവിലിവിടെയുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം അത് മൂന്ന് ശൂന്യമായ സ്പേസുകളെടുക്കുന്നു അതുകൊണ്ട് എനിക്ക് രണ്ട് ശൂന്യമായ സ്പേസുകൾ ലഭിക്കുന്നു പിന്നെ നാല് ശൂന്യമായ സ്പേസുകൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ വലിയ ശൂന്യമായ സ്പേസുകൾ ലഭിക്കുന്നത് അതായത് മൂന്ന് ശൂന്യമായ സ്പേസുകൾ പിന്നെ 4 എന്ന വില അതിന്റെ ഈ ഭാഗം മുഴുവൻ കാര്യങ്ങളും വരുന്നത് ഫോർമാറ്റിൽ നിന്നാണ് അതുകൊണ്ട് എനിക്കൊരു ശൂന്യമായ സ്പേസ് അതിന് ശേഷം 4 ഉണ്ട് കാരണം മൂന്ന് വീതിയുള്ള സ്പേസിൽ 4 ഇടാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സംഖ്യയായത് കൊണ്ട് അത് വലത് വശത്തേക്ക് പോകുന്നു നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം എനിക്കൊരു പൂർണ്ണസംഖ്യയല്ലാത്ത എന്നാൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യയായ 47 523 ഉണ്ടെന്ന് കരുതുക ഇവിടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ d യ്ക്ക് പകരം ഫ്ലോട്ടിംഗ് പോയിന്റിന് f ആണുള്ളത് അതുകൊണ്ടാണ് 6 കോളന് വലതുവശമുള്ള ഈ മുഴുവൻ കാര്യങ്ങളും ഇവിടെ നിന്ന് വരുന്ന വിലകളെ എങ്ങിനെയാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത് എന്ന് എന്നോട് പറയുന്നു 2f താഴെ പറയുന്നത് പ്രകാരം വേർപെടുത്തുന്നു ഏത് തരം വിലയാണ് എന്നാണ് അതിൽ അക്ഷരത്തിന്റെ ഭാഗമായ f എപ്പോഴും പറയുന്നത് അതുകൊണ്ട് 47 523 ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യയായി കണക്കാക്കണമെന്ന് പറയുന്നു എത്ര സ്പേസുകൾ എനിക്ക് എഴുതുവാൻ വേണമെന്നാണ് രണ്ടാമത്തെ കാര്യമായ 6 പറയുന്നത് അതുകൊണ്ട് ദശാംശസ്ഥാനമടക്കം ആകെ എത്ര വില എന്ന് അത് പറയുന്നു മുഴുവൻ കാര്യങ്ങളും 6 പ്രതീകങ്ങളുടെ വീതിയിൽ വരുന്നു അവസാനമായി ദശാംശസ്ഥാനത്തിന് ശേഷം എത്ര അക്കങ്ങൾ കാണിക്കണമെന്നാണ് 2 പറയുന്നത് ഞാനിത് മുഴുവൻ പ്രയോഗിക്കുകയാണെങ്കിൽ ആദ്യമായി എനിക്ക് ദശാംശസ്ഥാനത്തിന് ശേഷം രണ്ട് അക്കങ്ങൾ മാത്രമാണുള്ളത് ഈ 3 നഷ്ടപ്പെടുന്നു പിന്നെ 6 പ്രതീകങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതിനാൽ ഞാൻ വലത് ഭാഗത്ത് നിന്ന് എണ്ണിത്തുടങ്ങിയാൽ ഇത് 1 2 3 4 5 പ്രതീകങ്ങളാണ് എന്നാണ് എന്നാൽ അത് 6 പ്രതീകങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ഒരു അധികം ശൂന്യ സ്ഥലം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ശൂന്യ സ്ഥലം മാത്രമാണിവിടെയുള്ളത് രണ്ടാമത്തെ ശൂന്യ സ്ഥലം വരുന്നത് ഫോർമാറ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നിർഭാഗ്യവശാൽ ഇത് യഥാർത്ഥത്തിൽ ഉപയോക്തൃ സൌഹൃദമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല എന്നാൽ മറ്റു വിലകൾക്ക് കോഡുകളുണ്ട് f ഉം d ഉം നമ്മൾ നമ്മൾ കണ്ടു അതേപോലെ സ്ട്രിങ്ങിന് s ഒക്ടലിന് o ഹെക്സാഡെസിമലിന് x തുടങ്ങിയ കോഡുകളുമുണ്ട് ഫോർമാറ്റ് ചെയ്യാനുപയോഗിക്കുന്ന ഇവയുപയോഗിച്ച് ഈ വിലകളെല്ലാം പ്രദർശിപ്പിക്കാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് മറ്റുകാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതായത് അത് വലത് ഭാഗത്ത് ഇടുന്നതിന് പകരം ഇടതു ഭാഗം മതിയെന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിലയെ ഇടത് ജസ്റ്റിഫൈ ചെയ്യുവാൻ സാധിക്കും ഉദാഹരണത്തിന് ഫീൽഡിന്റെ വീതിയായ 5 ൽ നിങ്ങളൊരു സ്ട്രിങ്ങ് ഇടുകയാണെങ്കിൽ ആ സ്ട്രിങ്ങ് ഇടതു ഭാഗത്ത് നിന്ന് വരുന്നത് കാണാവുന്നതാണ് മറിച്ച് വലതു ഭാഗത്ത് നിന്നല്ല അതിന് ശേഷം നിങ്ങൾക്ക് മുമ്പിലുള്ള പൂജ്യങ്ങളെ കൂട്ടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് 3 വീതിയിൽ 4 പ്രദർശിപ്പിക്കേണ്ടി വരുമ്പോൾ അത് 4 ആയല്ല മറിച്ച് 004 എന്നാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് അതായത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞത് പോലെ ഇത് നിങ്ങൾക്ക് ഫോർമാറ്റിംഗ് മുഴുവൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ കൂട്ടമാണ് ഇവയുടെയെല്ലാം ഉത്ഭവം C എന്ന ഭാഷയിൽ നിന്നാണെന്നും printf എന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്നുമാണ് അതുകൊണ്ട് നമ്മുടെ 0 3d 6 2f എന്നിവയും അതിന്റെ അർത്ഥം എന്താണെന്നും കൃത്യമായ ഫോർമാറ്റിംഗ് സ്റ്റേറ്റ്മെന്റാണ് നിങ്ങൾ പൈത്തൺ ഡോക്യുമെന്റേഷൻ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിന്റെ എല്ലാ വകഭേദങ്ങളും നിങ്ങൾക്ക് വേണമെന്നില്ല നിങ്ങൾക്കാവശ്യമുള്ളപ്പോൾ അവ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എന്നാൽ ഇത്തരം ഫോർമാറ്റിങ്ങുകൾ ചെയ്യുവാൻ സാധിക്കുമെന്നറിയുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും